ഈ പ്രഭാഷണത്തിൽ ഇൻഡസ്ട്രി 4 0 ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചില അടിസ്ഥാന ആശയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത് അതിനാൽ നിലവിൽ നിങ്ങൾ എല്ലാവരും AI യുടെ ഹൈപ്പിനെക്കുറിച്ച് കേട്ടിരിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വ്യവസായങ്ങളിലും മറ്റെല്ലായിടത്തും അതിന്റെ ഉപയോഗവും വാസ്തവത്തിൽ AI ഇന്നത്തെ കാലത്ത് വളരെ ആകർഷകമായി മാറിയിരിക്കുന്നു കൂടാതെ വിവിധ ഡൊമെയ്ൻ വ്യവസായങ്ങളിൽ ഇത് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ കണ്ടെത്തുന്നു അതിനാൽ ഒരു ഇൻഡസ്ട്രി 4 0 യുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് കൃത്രിമബുദ്ധി ഒരു വലിയ പങ്ക് വഹിക്കുമെന്ന് വിഭാവനം ചെയ്യുന്നു അതിനാൽ AI യുടെ പിന്നിലെ അടിസ്ഥാന ആശയങ്ങളും മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താനും വ്യാവസായിക മേഖലയിലെ വ്യത്യസ്ത വെല്ലുവിളികൾ പരിഹരിക്കാനും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ കൃത്രിമബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അത് ഒരുതരം ബുദ്ധിയാണ് അതിന്റെ ഒരു കൃത്രിമ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സോക്കർ കളിക്കുന്ന റോബോട്ട് റോബോ സോക്കർ സോക്കർ കളിക്കുന്ന റോബോട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എങ്കിൽ ഡ്രൈവറില്ലാ കാറുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ പ്രചാരത്തിലുണ്ട് ഡ്രൈവറില്ലാ കാറുകൾ വ്യത്യസ്ത വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AI ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇവ അല്ലാത്തപക്ഷം പരിഹരിക്കാൻ പ്രയാസമാണ് പക്ഷേ ഇത് ഫുട്ബോൾ കളിക്കുന്നത് റോബോട്ട് മാത്രമല്ല ഡ്രൈവറില്ലാ കാറുകൾ മാത്രമല്ല AI ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് വഞ്ചന കണ്ടെത്തുന്നതിനുള്ള വിവിധ ഡൊമെയ്നുകളിലെ ആപ്ലിക്കേഷൻ AI കണ്ടെത്തുന്നു ചെസ്സ് ഗെയിം കളിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യാൻ AI ഉപയോഗിക്കാം കൂടാതെ ഇത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗെയിമുകളിലെ AI യുടെ ആപ്ലിക്കേഷനുകളിൽ ധാരാളം ആളുകൾ വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യവസായങ്ങളിൽ വ്യാവസായിക പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്വമേധയാ പരിഹരിക്കാൻ പ്രയാസമുള്ള AI കൂടാതെ മറ്റ് വിവിധ ആപ്ലിക്കേഷനുകൾ വ്യവസായങ്ങളിൽ താൽപ്പര്യം കണ്ടെത്തി അപ്പോൾ എന്താണ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനാൽ AI എന്താണെന്നതിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് അതിനാൽ ഇത് വളരെ വിശാലമായി വ്യാപ്തിയുള്ളതാണ് കൂടാതെ പാറ്റേഴ്സന്റെ ഒരു നിർവചനം അനുസരിച്ച് കൃത്രിമ ബുദ്ധി എന്താണെന്ന് വിവരിക്കാൻ ഒന്നിലധികം നിർവചനങ്ങൾ ഉണ്ട് AI എന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണ് അത് പഠനവും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ നിർമ്മാണവും കൈകാര്യം ചെയ്യുന്നു അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ സ്വാഭാവിക ബുദ്ധിയുമായി വളരെ സാമ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധി പ്രകടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെക്കുറിച്ചാണ് അതിനാൽ മനുഷ്യരെപ്പോലെ ബുദ്ധിപരമായി ചിന്തിക്കാനും പെരുമാറാനും ശ്രമിക്കുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു നിർവചനം പറയുന്നത് AI എന്താണെന്നതിന് നിരവധി വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മറ്റൊരു വീക്ഷണം മനുഷ്യന്റെ മാനസിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വ്യത്യസ്ത കമ്പ്യൂട്ടേഷണൽ മോഡലുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു വീക്ഷണം അതിനാൽ അത് AI യുടെ മറ്റൊരു സ്കോപ്പാണ് അതിനാൽ AI എന്താണെന്നതിന് ഇതുപോലെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അതിനാൽ ലാറ്ററൽ നിർവചനം അടിസ്ഥാനപരമായി നിർദ്ദേശിക്കുന്നത് യൂജിൻ ചാർണിയക്കും ഡ്രൂ മക്ഡെർമോട്ടും ആണ് അതിനാൽ നമ്മൾ കൃത്രിമമായി സംസാരിക്കുന്നത് അത് മനുഷ്യനിർമ്മിതവും ബുദ്ധിയുമായി സംയോജിപ്പിക്കുന്നതുമാണ് അത് അടിസ്ഥാനപരമായി ചിന്താശക്തിയും ഒരുമിച്ച് ഒരു സംവിധാനവും കൈവരിക്കുന്നു സിസ്റ്റത്തിന്റെ വികസനം AI അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ് അത് മനുഷ്യനിർമ്മിതമാണ് ചിന്താശക്തി അതിനാൽ ലളിതമായ രൂപത്തിൽ അവബോധജന്യമായ തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള സോഫ്റ്റ്വെയറിന്റെ ഒരു സൃഷ്ടിയാണ് AI അതിനാൽ AI സിസ്റ്റങ്ങൾ സാധാരണയായി സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാണ് എന്നാൽ വ്യാവസായിക മേഖലയിലോ മറ്റ് പല ഡൊമെയ്നുകളിലോ ഈ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഏതെങ്കിലും തരത്തിലുള്ള ഹാർഡ്വെയറിൽ പ്രവർത്തിക്കേണ്ടി വരും അതിനാൽ നിങ്ങൾ AI സിസ്റ്റങ്ങളെക്കുറിച്ച് സമഗ്രമായി സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഹാർഡ്വെയർ പൂർണ്ണമായും വേർപെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ AI യുടെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായി AI നമ്മുടെ രാജ്യത്തും ആഗോളതലത്തിലും വളരെയധികം പ്രചാരം കണ്ടെത്തി എന്നാൽ 1950 കൾ മുതൽ AI നിലവിലുണ്ട് പിന്നീട് മുമ്പ് AI യിൽ വ്യത്യസ്ത സൈദ്ധാന്തിക ഗവേഷണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു Lisp PROLOG പോലുള്ള AI യ്ക്കൊപ്പം ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യത്യസ്ത ഭാഷകൾ ഉണ്ട് തുടർന്ന് 1970 കളിൽ വിദഗ്ധ സംവിധാനങ്ങൾ എന്ന ആശയം നിലവിൽ വന്നു വിദഗ്ധ സംവിധാനങ്ങൾ അടിസ്ഥാനപരമായി നിലവിലുള്ള ചില അറിവുകളെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളാണ് ഭാവിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ പോകുന്നത് അതിനാൽ വിദഗ്ദ്ധ സംവിധാനങ്ങൾ നിലവിൽ വന്നു പിന്നീട് 1990 കളിൽ 1990 കളുടെ മധ്യത്തിൽ എവിടെയോ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഡീപ് ബ്ലൂ വളരെ ജനപ്രിയമായി ചെസ്സ് കളിക്കാൻ കഴിയുന്ന AI അധിഷ്ഠിത സംവിധാനമായ ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടറുമായി IBM എത്തി അതിനാൽ നിങ്ങൾ ഇപ്പോൾ അതിന്റെ ചരിത്രം ഓർക്കുകയാണെങ്കിൽ ഡീപ് ബ്ലൂ അടിസ്ഥാനപരമായി ഏറ്റവും മികച്ച ചെസ്സ് കളിക്കാരിൽ ഒരാളെ വളരെക്കാലം മുമ്പ് പരാജയപ്പെടുത്തി അങ്ങനെ കമ്പ്യൂട്ടർ അപ്പോഴാണ് ഒരു കൃത്രിമ സംവിധാനത്തിന് മനുഷ്യന്റെ തലച്ചോറിനെയും വിദഗ്ധ തലച്ചോറിനെയും മറികടക്കാൻ കഴിഞ്ഞത് 1990 കളിൽ ഒരു വിദഗ്ധ ചെസ്സ് കളിക്കാരനെ ഡീപ് ബ്ലൂ പരാജയപ്പെടുത്തി അപ്പോഴാണ് AI യുടെ ആപ്ലിക്കേഷനുകൾ ഡൊമെയ്നിൽ ജനപ്രിയമായത് ഗെയിമുകളുടെയും ചെസ്സിന്റെയും പ്രത്യേകിച്ച് അതിനാൽ AI ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനാൽ AI ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വലിയ ഡാറ്റാബേസുകളും അൽഗോരിതം തിരയൽ രീതിയും ഉപയോഗിക്കുന്നു അതേസമയം AI ഉള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വലിയ വിജ്ഞാന അടിത്തറയും ഹ്യൂറിസ്റ്റിക് തിരയൽ രീതിയും ഉപയോഗിക്കുന്നു അതിനാൽ ഇത് അൽഗോരിതമിക് സെർച്ചും ഹ്യൂറിസ്റ്റിക് സെർച്ച് രീതിയുമാണ് അൽഗോരിതമിക് സെർച്ച് അടിസ്ഥാനപരമായി ചില ഒപ്റ്റിമൈസ് ചെയ്ത സൊല്യൂഷനുകൾ കൊണ്ടുവരാൻ ചില നന്നായി നിർവചിക്കപ്പെട്ട നടപടിക്രമങ്ങൾ പിന്തുടരുന്നു എന്നാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹ്യൂറിസ്റ്റിക് തിരയൽ AI യിൽ ഹ്യൂറിസ്റ്റിക് തിരയൽ ജനപ്രിയമാണ് കാരണം ഈ AI അടിസ്ഥാനമാക്കിയുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ എളുപ്പമല്ല തിരയൽ ഇടം വളരെ വലുതാണ് AI പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതിനാൽ അൽഗോരിതമിക് തിരയൽ രീതികൾ പോലെയുള്ള പരമ്പരാഗത തിരയൽ രീതികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യക്ഷമമായ ചില പരിഹാരങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അതിനാൽ ഹ്യൂറിസ്റ്റിക് തിരയൽ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് ഹ്യൂറിസ്റ്റിക്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന നിയമങ്ങളെക്കുറിച്ചോ ആണ് അതിനാൽ ഇവയാണ് ഹ്യൂറിസ്റ്റിക് തിരയൽ രീതികൾ AI യുടെ ഡൊമെയ്നിലെ വളരെ ജനപ്രിയമായ തിരയൽ രീതികളാണ് ഹ്യൂറിസ്റ്റിക്സ് തിരയൽ രീതികൾ കൂടാതെ വിവിധ ഗെയിമുകളിലെ ചെസ്സ് ഉൾപ്പെടെയുള്ള ഗെയിമുകളിലെ AI യുടെ ആപ്ലിക്കേഷനുകളിൽ ഹ്യൂറിസ്റ്റിക് തിരയൽ രീതികൾ ധാരാളം ഉപയോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് AI എന്ന തിരയൽ രീതി ഹ്യൂറിസ്റ്റിക് തിരയൽ രീതികൾ AI ൽ വളരെ പ്രചാരമുള്ളത് കാരണം കമ്പ്യൂട്ടർ ഗെയിമുകളെക്കുറിച്ച് ചിന്തിക്കുക ചെസ്സ് ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനാൽ ചിലപ്പോൾ ഇൻപുട്ട് ഇടം വളരെ വിശാലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരമ്പരാഗത തിരയൽ രീതികൾ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ചില പരിഹാരങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ചില ഹ്യൂറിസ്റ്റിക് രീതികൾ ഉപയോഗിക്കേണ്ടതുണ്ട് അത് ചില വ്യവസ്ഥകളിൽ ഒരു നിശ്ചിത സമയത്ത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും അതിനാൽ ഗെയിമുകൾക്കായി AI AI എന്നിവയിൽ ഹ്യൂറിസ്റ്റിക് തിരയൽ രീതികൾ വളരെ ജനപ്രിയമാണ് അതിനാൽ AI പ്രധാനമായും അറിവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നത് വിവരങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന നിരവധി ഡാറ്റയെക്കുറിച്ചാണ് തുടർന്ന് വിവരങ്ങൾക്ക് അറിവ് കെട്ടിപ്പടുക്കാൻ സഹായിക്കാനാകും അതിനാൽ ഒരു പ്രത്യേക ജോലി നിർവഹിക്കാൻ ഉപയോഗിക്കാവുന്ന വിവരങ്ങളാണ് അറിവ് അതിനാൽ അറിവിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട് പ്രത്യേകിച്ച് AI യുടെ പശ്ചാത്തലത്തിൽ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന പരിജ്ഞാനം ഉണ്ട് അത് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ചില നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരു പ്രത്യേക പ്രശ്നം കൊണ്ടുവരാൻ അത് സ്വീകരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് സമവാക്യം അതിനാൽ അത് പരിഹരിക്കുന്നതിന് പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ അത് നടപടിക്രമപരമായ അറിവ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ റിലേഷണൽ അറിവ് ഇത് വിവരണാത്മക വിജ്ഞാനം എന്നും അറിയപ്പെടുന്നു അതിനാൽ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്നത് അറിവിനെക്കുറിച്ചോ ഒരു പ്രത്യേക വസ്തുവിന്റെ വിവരണത്തെക്കുറിച്ചോ ഒരു വസ്തു ഒരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചോ ആണ് അത്തരം അറിവുകൾ സൂക്ഷിക്കുന്നത് പ്രധാനമാണ് കൂടാതെ അത്തരത്തിലുള്ള അറിവ് അത് നടപടിക്രമപരമോ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് ആണെങ്കിലും അത്തരം അറിവ് അടുത്ത നീക്കം നടത്താൻ അല്ലെങ്കിൽ വ്യവസായങ്ങളിലെ പ്രക്രിയകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും നിലവിലുള്ള ചില അറിവുകളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ നടക്കുന്ന രീതി ഭാവിയിലെ പ്രക്രിയകളും മറ്റും മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അതിനാൽ വ്യവസായങ്ങളുടെയും വ്യാവസായിക പ്രക്രിയകളുടെയും പശ്ചാത്തലത്തിൽ ഈ അറിവും AI എന്ന ആശയവും ബാധകമാകുന്നത് അവിടെയാണ് ഹ്യൂറിസ്റ്റിക് അറിവ് അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത ഹ്യൂറിസ്റ്റിക്സ് ആണ് അത് ചില പ്രശ്നങ്ങൾ വിവിധ സമയങ്ങളിലെ ചില വെല്ലുവിളികൾ ഹ്യൂറിസ്റ്റിക് അറിവ് എന്നിവ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കേണ്ടി വരും ഇനി നമുക്ക് AI യുടെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവിധ മേഖലകളിൽ ഉപയോഗം കണ്ടെത്തി നമ്മൾ ഇതിനകം സംസാരിച്ച ഗെയിമുകളിൽ ചെസ്സ് ഗെയിമിൽ സോക്കർ ഗെയിമുകളിൽ മറ്റ് വ്യത്യസ്ത ഗെയിമുകളിൽ AI ആപ്ലിക്കേഷനുകൾ കണ്ടെത്തി സിദ്ധാന്തം മെച്ചപ്പെടുത്തുന്നതിൽ NLP അടിസ്ഥാനപരമായി സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗ് ആണ് അതിനാൽ എൻഎൽപിയിലെ AI എന്നാൽ നിങ്ങൾ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അർത്ഥമാക്കുന്നു അത് കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിന്റെ ഭാഷയല്ല മറിച്ച് മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്താൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങിയ സ്വാഭാവിക ഭാഷകളെ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ അതാണ് എൻഎൽപി പിന്നെ വിഷൻ കമ്പ്യൂട്ടർ വിഷൻ സ്പീച്ച് പ്രോസസ്സിംഗ് എന്നിവയിലും AI ഉപയോഗം കണ്ടെത്തി കമ്പ്യൂട്ടർ ദർശനം അടിസ്ഥാനപരമായി ഒരു കമ്പ്യൂട്ടറിനെ ചുറ്റും കാണാനും ചുറ്റും കാണാനും ചുറ്റുമുള്ളത് അനുഭവിക്കാനും പ്രാപ്തമാക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് സ്പീച്ച് പ്രോസസ്സിംഗ് മനുഷ്യർ സംസാരിക്കുന്ന രീതി മനുഷ്യർ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസിലാക്കാൻ ഒരു കമ്പ്യൂട്ടറിനെ പ്രാപ്തമാക്കുന്നു വാചകം മാത്രമല്ല മനുഷ്യരുടെ സംസാരം സാധാരണഗതിയിൽ തത്സമയം മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ തത്സമയമാകണമെന്നില്ല അതിനാൽ നിങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ മനുഷ്യർ അവരുടെ സ്വന്തം ഭാഷയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസിലാക്കാൻ സ്പീച്ച് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറുകളെ സഹായിക്കും പിന്നീട് റോബോട്ടിക്സിൽ റോബോട്ടിക്സ് AI വരുന്നു വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന റോബോട്ട് റോബോട്ട് വ്യത്യസ്ത നീക്കങ്ങൾ നടത്തുന്നു ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് വ്യത്യസ്ത നീക്കങ്ങൾ നടത്തുന്നു വ്യത്യസ്ത പാതകൾ എടുക്കുന്നു അതിനാൽ റോബോട്ടിക്സിലെ AI വളരെ പ്രധാനപ്പെട്ടതും വിദഗ്ധ സംവിധാനങ്ങളിൽ വളരെ പ്രധാനമാണ് അടിസ്ഥാനപരമായി വിജ്ഞാന തീവ്രമായ സംവിധാനങ്ങളിലുള്ള വിജ്ഞാന അടിത്തറയെ അടിസ്ഥാനമാക്കി ഈ സംവിധാനങ്ങളിൽ താമസിക്കുന്ന വിദഗ്ധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ സംവിധാനങ്ങൾക്ക് വിദഗ്ദ്ധോപദേശം നൽകാൻ കഴിയും അടുത്തതായി എന്തുചെയ്യണം അല്ലെങ്കിൽ ഭാവിയിൽ എന്തുചെയ്യണം എന്നതിനെക്കുറിച്ച് ഉപയോക്താക്കൾക്കുള്ള വിദഗ്ധ ഉപദേശം അതിനാൽ കൃത്രിമബുദ്ധി വളരെ പ്രധാനമാണ് അത് വളരെ ജനപ്രിയമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ML മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് ഇവയെല്ലാം സമീപ വർഷങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ട് അതിനാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ML DL ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ ആളുകളും മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഒരു ലിങ്കേജ് ഉണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ഈ കണക്ക് ഇവയുടെ ഓരോ വ്യാപ്തിയും കാണിക്കുന്നു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ് ലേണിംഗ് അടിസ്ഥാനപരമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശാഖകളാണ് എന്നാൽ അവ പഠനത്തിനപ്പുറം കൃത്രിമബുദ്ധിയിലാണ് തിരയൽ വർഗ്ഗീകരണം ഇവ അയയ്ക്കുന്ന പ്രശ്നങ്ങൾ അർത്ഥമാക്കുന്നത് AI യിൽ പഠിക്കുന്നതിനുമപ്പുറം ധാരാളം വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അതിനാൽ അടുത്തിടെ ജനപ്രിയമായ ഈ മൂന്ന് സാങ്കേതികവിദ്യകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സ്കോപ്പ് ഉള്ളത് അതിനാൽ അതാണ് നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ് അതിനാൽ മെഷീൻ ലേണിംഗ് എന്നത് AI യുടെ ഒരു ഭാഗമാണ് ഇത് വ്യക്തമായി പ്രോഗ്രാം ചെയ്യപ്പെടുന്നതിനുപകരം അവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ മെഷീനുകളെ പ്രാപ്തരാക്കുന്നു അതിനാൽ കമ്പ്യൂട്ടർ അടിസ്ഥാന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലോ ഏതെങ്കിലും ബി ടെക് പ്രോഗ്രാമിലോ മറ്റെന്തെങ്കിലും അടിസ്ഥാന കമ്പ്യൂട്ടർ കോഴ്സുകളിലോ ഒരു പ്രശ്നം പരിഹരിക്കാൻ കമ്പ്യൂട്ടർ എടുക്കാൻ പോകുന്ന ചില ഘട്ടങ്ങൾ വ്യക്തമായി പ്രോഗ്രാം ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥികളെ സാധാരണയായി പഠിപ്പിക്കുന്നത് മെഷീൻ ലേണിംഗിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമിനെക്കുറിച്ചാണ് അത് അനുഭവം മുൻ അനുഭവം മുൻകാല അനുഭവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ മികച്ച പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ കാലക്രമേണ മുൻകാല അനുഭവത്തെ അടിസ്ഥാനമാക്കി മികച്ചതും മികച്ചതുമായ പ്രവർത്തനങ്ങൾ കൈക്കൊള്ളും ഡീപ് ലേണിംഗ് അടിസ്ഥാനപരമായി മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് അത് ഒബ്ജക്റ്റിന്റെ സവിശേഷതകൾ സ്വന്തമായി കണ്ടെത്തി സ്വയമേവ പഠിക്കാൻ കഴിയും അതിനാൽ എന്താണ് ആഴത്തിലുള്ള പഠനം അടിസ്ഥാനപരമായി ചില കാര്യക്ഷമമായ അൽഗോരിതങ്ങൾ കൊണ്ടുവരാൻ ചില ആഴത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ ഘടനകൾ ഉപയോഗിക്കുന്നു അത് ഗ്രേറ്റർ കൂടുതൽ കൃത്യതയോടെ ചില കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും കൃത്യതയുടെ കാര്യത്തിൽ കാര്യക്ഷമത സാധാരണയായി അതിനാൽ ആഴത്തിലുള്ള പഠനത്തിലൂടെ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യപ്പെടും അതിനാൽ ആഴത്തിലുള്ള പഠനം മാത്രമാണ് പരിഹാരമെന്നത് പോലെയല്ല ആഴത്തിലുള്ള പഠനത്തിന് അതിന്റേതായ ആപ്ലിക്കേഷൻ ഡൊമെയ്നുകൾ ഉണ്ട് ആഴത്തിലുള്ള പഠനം അല്ലാത്ത മറ്റ് പരമ്പരാഗത മെഷീൻ ലേണിംഗ് സ്കീമുകളുണ്ട് അവയും ചില സന്ദർഭങ്ങളിൽ പ്രയോജനകരമാണ് മെഷീൻ ലേണിംഗിൽ ആഴത്തിലുള്ള പഠനമല്ല പരിഹാരം അത് അങ്ങനെയല്ല അതിനാൽ അവിടെയുള്ള ചില ആവശ്യകതകളെ ആശ്രയിച്ച് ചില പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ആഴത്തിലുള്ള പഠനമോ ആഴത്തിലുള്ള പഠനമോ അല്ലാത്ത രീതികൾ ഉപയോഗിക്കാം ഇനി രസകരമായ ഒരു കാര്യം പറയാം അതിനാൽ വ്യത്യസ്ത AI ടെക്നിക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ AI ഞങ്ങൾ മെഷീൻ ലേണിംഗിനെക്കുറിച്ച് സംസാരിച്ചു സിംബോളിക് ലേണിംഗ് എന്നൊരു കാര്യവുമുണ്ട് അതേസമയം മെഷീൻ ലേണിംഗ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രതീകാത്മക പഠനം ചിഹ്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഈ കാര്യത്തിന്റെ നല്ല ആപ്ലിക്കേഷനുകൾ പാറ്റേൺ തിരിച്ചറിയലിലായിരിക്കും മെഷീൻ ലേണിങ്ങിന് പാറ്റേൺ തിരിച്ചറിയൽ ഡാറ്റ മൈനിംഗ് എന്നിവയിൽ ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇവിടെ പ്രതീകാത്മക പഠനത്തിന് ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഇമേജ് പ്രോസസ്സിംഗ് ഇമേജ് പ്രോസസ്സിംഗ് അതിനാൽ പ്രതീകാത്മക പഠനം അടിസ്ഥാനപരമായി ഞങ്ങൾ കമ്പ്യൂട്ടർ ദർശനത്തിലെ ആപ്ലിക്കേഷനുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ റോബോട്ടിക്സും ഇത് മെഷീൻ ലേണിംഗും ആകാം വ്യത്യസ്ത തരം ആകാം ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം സംസാരിച്ചു പക്ഷേ ഇത് പരമ്പരാഗത സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനവും ആകാം അതിനാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗിന് സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗിൽ ആപ്ലിക്കേഷനുകളുണ്ട് സംഭാഷണ തിരിച്ചറിയലിൽ ആപ്ലിക്കേഷനുകളുണ്ട് ആഴത്തിലുള്ള പഠനം വ്യത്യസ്ത തരത്തിലാകാം കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ഒന്ന് ആവർത്തിച്ചുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ മറ്റൊന്ന് കമ്പ്യൂട്ടർ കാഴ്ച ഒബ്ജക്റ്റ് തിരിച്ചറിയൽ എന്നിവയുടെ വ്യത്യസ്ത പ്രശ്നങ്ങൾ വീണ്ടും പരിഹരിക്കാൻ ഇവ ഓരോന്നും ഉപയോഗിക്കാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപ്തിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപ്തിയുടെ വ്യത്യസ്ത രൂപങ്ങളുമാണ് പൂർണ്ണമായും മറിച്ച് പഠനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇപ്പോൾ തിരികെ പോയി സംസാരിക്കാം AI യുടെ വ്യാപ്തി അതിന്റെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ വ്യവസായങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രാധാന്യം ഗെയിമുകൾ കമ്പ്യൂട്ടർ വിഷൻ റോബോട്ടിക്സ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഡൊമെയ്നുകൾ ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഇപ്പോൾ നമുക്ക് നോക്കാം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനാൽ ഇൻഡസ്ട്രി 4 0 ന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ബിൽഡിംഗ് സിസ്റ്റങ്ങളിൽ AI ജനപ്രിയമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഇൻഡസ്ട്രി 4 0 ൽ ഇൻഡസ്ട്രി 4 0 നെ കുറിച്ചും അതിന്റെ വ്യാപ്തിയെ കുറിച്ചും ഞങ്ങൾ മുൻ പ്രഭാഷണങ്ങളിൽ ഒരുപാട് സംസാരിച്ചു എന്നാൽ എന്താണ് ഇൻഡസ്ട്രി 4 ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാമതായി മനുഷ്യന്റെ യന്ത്ര ഇടപെടൽ ഇത് വളരെ നിർണായകമാണ് മനുഷ്യരും യന്ത്രങ്ങളും ഇടപഴകുന്നു ഞങ്ങൾ ഇൻഡസ്ട്രി 4 0 ലും ചില സന്ദർഭങ്ങളിൽ മെഷീൻ ടു മെഷീൻ ആശയവിനിമയത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഒരു യന്ത്രം മനുഷ്യ ഇടപെടലില്ലാതെ മറ്റൊരു യന്ത്രത്തോട് നേരിട്ട് സംസാരിക്കുന്നു മെഷീനിൽ നിന്ന് യന്ത്രം ആശയവിനിമയം നടത്തുന്നു ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കോഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ് IoT അല്ലെങ്കിൽ IIoT പോലുള്ള സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഇവയെല്ലാം നിർമ്മാണ പ്രക്രിയകൾ മികച്ചതാക്കാൻ സഹായിക്കും അതിനാൽ അതാണ് ഇൻഡസ്ട്രി 4 ഇപ്പോൾ ഇൻഡസ്ട്രി 4 0 സ്മാർട്ട് ഫാക്ടറിയുടെ പശ്ചാത്തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് സ്മാർട്ട് ഫാക്ടറി സ്മാർട്ട് ഫാക്ടറി അതിനാൽ അടിസ്ഥാനപരമായി ഈ സ്മാർട്ട് ഫാക്ടറി ചെയ്യുന്നത് ഈ ഫാക്ടറിയാണ് ഫാക്ടറികളിലെ യന്ത്രങ്ങൾ ഫാക്ടറിയിൽ ഉള്ള ഭൌതിക വസ്തുക്കൾ പരസ്പരം ഇടപഴകുന്നു അവയുടെ വെർച്വൽ സംഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ വെർച്വൽ സന്ദർഭങ്ങൾ പരസ്പരം സംസാരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ ഭൌതിക ലോകവും വെർച്വൽ ലോകവും ഭൌതികമായതിനെ വെർച്വൽ സ്പെയ്സിലേക്ക് തൽക്ഷണം എത്തിക്കുകയും ഭൌതിക വസ്തുക്കളെയും തത്ഫലമായി വെർച്വൽ വസ്തുക്കളെയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഡസ്ട്രി 4 0 ലെ സ്മാർട്ട് ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നത് അങ്ങനെ വ്യക്തമായും മെഷീൻ സുരക്ഷ കാര്യക്ഷമമായ ഉൽപ്പന്നങ്ങളുടെ ജീവിതചക്രം കാര്യക്ഷമമായ നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങിയ കാര്യങ്ങൾ AI യുടെ സഹായത്തോടെ നേടാനാകും കൂടാതെ സ്മാർട്ട് ഫാക്ടറികൾ നിർമ്മിക്കുന്നതിന് ഇവ ആവശ്യമാണ് ഇത് ഇൻഡസ്ട്രി 4 0 അനുസരണമുള്ള വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കും അതിനാൽ IIoT IoT പൊതുവെ വ്യാവസായിക IoT ഇവയാണ് ഇവയാണ് ഇൻഡസ്ട്രി 4 0 ന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രധാനമായും സഹായിക്കുന്നത് IoT യ്ക്കൊപ്പം IIoT യ്ക്കൊപ്പം ഈ സംവിധാനങ്ങളെ കാര്യക്ഷമമായ സംവിധാനങ്ങളാക്കി മാറ്റാനും AI ഉപയോഗിക്കാനാകും AI ഉപയോഗിച്ച് IoT IIoT സംവിധാനങ്ങൾ കാര്യക്ഷമമാണ് അതിനാൽ അടിസ്ഥാനപരമായി AI യുടെ ഉപയോഗം മെഷീനുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ആശയവിനിമയം നടത്താനും വിവരങ്ങൾ കൈമാറാനും സഹായിക്കുന്നു കൂടാതെ ഈ കാര്യം വിവിധ വ്യവസായ മേഖലകളിൽ ധനകാര്യം റീട്ടെയിൽ ആരോഗ്യ സംരക്ഷണം കൃഷി എന്നിവയിൽ ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾ ഇതിന് പേര് നൽകുക ഈ മെഷീനുകളെയും ഈ ഉപകരണങ്ങളെയും പരസ്പരം കൂടുതൽ കാര്യക്ഷമമായി വിവരങ്ങൾ ആശയവിനിമയം നടത്താനും റിലേ ചെയ്യാനും സഹായിക്കുന്നതിന് AI ഉപയോഗിക്കാൻ കഴിയും ഇതിനായി പ്രത്യേകമായി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വിഷൻ റോബോട്ടിക്സ് NLP ML DL RL എന്നിവ ഉപയോഗിക്കാം ഞങ്ങൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവ ഉപയോഗിക്കാനാകും അതിനാൽ വ്യവസായങ്ങളിൽ AI യുടെ സഹായത്തോടെ യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ അളവിലുള്ള ഡാറ്റ പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും മെച്ചമായി ചെയ്യാൻ വ്യവസായങ്ങളിൽ പ്രാപ്തമാണ് അതിനാൽ AI ഉപയോഗിച്ച് ആശയവിനിമയം ഓട്ടോമേഷൻ റിലേ മുതലായവ മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരു വശം മറ്റൊന്ന് നിങ്ങൾ വ്യവസായങ്ങളിൽ IoT IIoT എന്നിവ ഉപയോഗിച്ചുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഈ സെൻസറുകൾ ആക്യുവേറ്ററുകൾ ഈ IoT ഉപകരണങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവ ധാരാളം ഡാറ്റ എറിയാൻ പോകുന്നു അതിനാൽ ആ ഡാറ്റ ഞങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഒരാൾക്ക് കഴിഞ്ഞ ഡാറ്റ പ്രയോജനപ്പെടുത്താം കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഭാവിയിൽ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിനും ഈ മുൻ ചരിത്ര ഡാറ്റയിൽ നിന്ന് സൃഷ്ടിച്ച അനുഭവം ഉൽപ്പാദനത്തിൽ വിളവ് വിളവിന്റെ ഗുണനിലവാരം വിളവിന്റെ ഗുണമേന്മ പ്രവചിക്കൽ എന്നിവയ്ക്ക് ഉദാഹരണങ്ങളാണ് അതിനാൽ ഇവ AI യുടെ ഉപയോഗത്തിന്റെ വ്യത്യസ്ത ഉദാഹരണങ്ങളാണ് ഓട്ടോമേഷൻ ആശയവിനിമയം വിവരങ്ങളുടെ കാലതാമസം തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപ്പാദന വ്യവസായങ്ങളിലെ വിളവിന്റെ അളവ് വിളവിന്റെ ഗുണനിലവാരം മുതലായവയുടെ പ്രവചന പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനും AI അതിനാൽ IIoT യിൽ AI യുടെ വ്യത്യസ്ത വെല്ലുവിളികൾ ഉണ്ട് വ്യത്യസ്ത ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുക ഡാറ്റ മനസ്സിലാക്കുക ഡാറ്റ പരിശീലിപ്പിക്കുക അത് ആക്സസ് ചെയ്യാവുന്നതാക്കുക മെഷീനുകൾ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കുക ഇവയെല്ലാം IIoT യിൽ AI യുടെ ഉപയോഗത്തിന്റെ വ്യത്യസ്ത വെല്ലുവിളികളാണ് അതിനാൽ ഇവ ഓരോന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല പക്ഷേ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം പരിശീലനമാണ് പരിശീലനം വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ മുൻകാല ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ മികച്ച എന്തെങ്കിലും ചെയ്യാൻ മെഷീനുകളെ പരിശീലിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കും വാസ്തവത്തിൽ അത് ഒരു തരം പഠനമാണ് AI ൽ അത് ഒരു തരം പഠനമാണ് അതിനാൽ വ്യത്യസ്ത തരം പഠനങ്ങളുണ്ട് പരിശീലന ഡാറ്റാ സെറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു തരം പഠനമാണിത് അതിനാൽ IIoT യിൽ AI യുടെ വ്യത്യസ്ത ഗുണങ്ങളുണ്ട് വ്യവസായ സ്കെയിലിൽ AI യുടെ പ്രയോജനം കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ചെലവ് ലാഭിക്കുക സുരക്ഷ മെച്ചപ്പെടുത്തുക പ്രകടനം വർദ്ധിപ്പിക്കുക വ്യവസായങ്ങളിലെ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ മുമ്പത്തെ സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള വിഭവങ്ങൾ അതിനാൽ എല്ലാത്തരം വിഭവങ്ങളും എല്ലാത്തരം മൂർത്തവും മൂർത്തമല്ലാത്തതുമായ മാനവവിഭവശേഷി വർദ്ധിപ്പിക്കുന്നു അതിനാൽ വ്യാവസായിക തലത്തിൽ AI യുടെ സഹായത്തോടെ എല്ലാത്തരം വിഭവങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ വിവിധ വ്യവസായങ്ങളിൽ AI ഉപയോഗം കണ്ടെത്തി കാർഷിക വ്യവസായത്തിൽ കൃത്യമായ കൃഷിക്ക് വിള മണ്ണ് നിരീക്ഷണത്തിന് AI ഉപയോഗിക്കാം കൃത്യമായ കൃഷി എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങൾ തുടങ്ങിയവയാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായി വയലിൽ ജലസേചനം ചെയ്യേണ്ടത് വയലിൽ വളങ്ങൾ ഇടുക കൃത്യമായി വളങ്ങൾ പ്രയോഗിക്കേണ്ട പ്രദേശം കൃത്യമായി എന്ത് വളങ്ങൾ ആവശ്യമാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വളം ഇടുകയല്ല അതിനാൽ കൃഷിയിലെ ഈ പ്രവചനങ്ങളും കൃത്യതകളും എല്ലാം AI യുടെ സഹായത്തോടെ നേടിയെടുക്കാൻ കഴിയും കൃഷിയുടെ പശ്ചാത്തലത്തിൽ വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും AI യുടെ സഹായത്തോടെ ഭക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനും കഴിയും അതിനാൽ അതാണ് കാർഷിക മേഖലയിലെ AI വിദ്യാഭ്യാസ വ്യവസായത്തിൽ രസകരമായ പഠന പരിപാടികൾ നിർമ്മിക്കുന്നതിനും ക്ലാസ് മുറിയിലേക്ക് ആഴത്തിലുള്ള സാങ്കേതികവിദ്യ നൽകുന്നതിനും വിദ്യാർത്ഥി നിലനിർത്തൽ നിരക്ക് മെച്ചപ്പെടുത്തുന്നതിനും AI ഉപയോഗിക്കാം അതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ AI ഉപയോഗിക്കുന്ന വിവിധ സംവിധാനങ്ങൾ ഇതിനകം തന്നെ നിലവിലുണ്ട് ഉദാഹരണത്തിന് കാർണഗീ ലേണിംഗിന്റെ സ്മാർട്ട് ലേണിംഗ് സിസ്റ്റങ്ങൾ തുടർന്ന് ക്വേറിയം കോർപ്പറേഷൻ AI അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ സംവിധാനം ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി തരത്തിലുള്ള AI അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ഉപയോഗത്തിന് ലഭ്യമാണ് അതിനാൽ നിർമ്മാണ ഘടകങ്ങളുടെ മേഖലയിൽ യന്ത്രങ്ങളുടെ വൈദ്യുതി ഉപഭോഗം മെച്ചപ്പെടുത്തുന്നതിനും യന്ത്രങ്ങളുടെ തകരാർ കണ്ടെത്തുന്നതിനും ഉപഭോക്തൃ ആവശ്യം പ്രവചിച്ച് ഉൽപ്പന്ന വിതരണം നിലനിർത്തുന്നതിനും നിർമ്മാണ വ്യവസായങ്ങൾ AI ഉപയോഗിക്കാം അതിനാൽ നിർമ്മാണത്തിലെ AI യുടെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഇവയാണ് എയ്റോസ്പേസ് വ്യവസായത്തിലെ AI ഫ്ലൈറ്റിന്റെ എല്ലാ ദിവസവും ഉപയോഗപ്രദമായ ഡാറ്റ എക്സ്ട്രാക്റ്റുചെയ്യുന്നു നിർമ്മാണ പ്രക്രിയകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നു ബോയിംഗ് എയർബസ് തുടങ്ങിയ ഈ മുൻനിര വിമാന നിർമ്മാതാക്കളെല്ലാം അവരുടെ പ്രക്രിയകളിൽ AI വളരെയധികം ഉപയോഗിക്കുന്നു അതിനാൽ റെയിൽ ഗതാഗതത്തിന്റെയോ ഓട്ടോമോട്ടീവ് ഗതാഗതത്തിന്റെയോ കാര്യത്തിലും AI ഉപയോഗിക്കുന്നു സെൽഫ് ഡ്രൈവിംഗ് കാർ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്നാണ് അപകടങ്ങൾ തടയാൻ ഡ്രൈവർമാരെ സഹായിക്കുന്നത് പോലെ ഇവയെല്ലാം വ്യത്യസ്ത ആപ്ലിക്കേഷനുകളാണ് ഗതാഗത വ്യവസായത്തിൽ AI യുടെ ഉപയോഗത്തിന്റെ വിവിധ ആപ്ലിക്കേഷനുകളിൽ ചിലത് ഇവയാണ് അതിനാൽ റഫറൻസുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവസാനമായി ഒരു കാര്യം മെഷീൻ ലേണിംഗിനെക്കുറിച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവസാന കാര്യം മെഷീൻ ലേണിംഗ് മറ്റെന്തെങ്കിലും ചെയ്യാൻ സഹായിക്കും എന്നതാണ് അതിനാൽ നിങ്ങൾ X നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പരാമീറ്റർ പരസ്യം പറയാം ഇത് വിൽപ്പനയാണ് Y ആക്സിസ് എന്ന് പറയാം അതിനാൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാവുന്ന വ്യത്യസ്ത ഡാറ്റ ഉണ്ടായിരിക്കാം തുടർന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിഗ്രഷൻ ഫിറ്റിംഗ് അല്ലെങ്കിൽ ചില കോറിലേഷൻ പഠനങ്ങൾ നടത്താം അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മനുഷ്യർ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ നല്ലവരാണ് കാരണം ഇത് ഒരു ദ്വിമാനമായ കാര്യമാണ് കൂടാതെ കർവ് ഫിറ്റിംഗിന്റെ വ്യത്യസ്ത വഴികൾ ഞങ്ങൾക്കറിയാം അതിനാൽ 2 ഡൈമൻഷനിൽ കോറിലേഷൻ റിഗ്രഷൻ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ അളവുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതേ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ നിങ്ങൾ മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും മനുഷ്യന്റെ വൈദഗ്ധ്യവും മനുഷ്യന്റെ കണ്ണ് മനുഷ്യന്റെ ബുദ്ധി മനുഷ്യ മസ്തിഷ്കം എന്നിവ ഉപയോഗിച്ച് സമാനമായ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതിനാൽ കമ്പ്യൂട്ടറുകൾക്ക് ഇത് ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ കൂടുതൽ വ്യക്തമായി മെഷീൻ ലേണിംഗ് ഈ വ്യത്യസ്ത തരം പരസ്പരബന്ധം കർവ് ഫിറ്റിംഗ് ഒന്നിലധികം അളവുകളുള്ള ഒന്നിലധികം ഇടങ്ങളിൽ ഒരേ സമയം നേടാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഇത് മെഷീൻ ലേണിംഗിന്റെ മറ്റൊരു പ്രയോഗമാണ് ഈ സന്ദർഭങ്ങളിൽ മനുഷ്യർക്കും യന്ത്രങ്ങൾക്കും എങ്ങനെ മനുഷ്യരേക്കാൾ മികച്ച പ്രകടനം നടത്താനാകും അതിനാൽ നമുക്ക് ഇപ്പോൾ തിരിച്ചുപോയി ഈ കാര്യങ്ങൾ നോക്കാം അതിനാൽ അവിടെയുള്ള ഈ പരാമർശങ്ങളിൽ ചിലത് ഇവയാണ് അതിനാൽ AI ML DL എന്നിവയ്ക്കായുള്ള റഫറൻസുകൾ അതിന്റെ ബൃഹത്തായ ഇവയിൽ ചിലതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും എന്നാൽ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു വിദഗ്ദ്ധനാകാൻ കഴിയില്ല നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമസ്റ്റർ ദൈർഘ്യമുള്ള കോഴ്സുകളാണ് ഈ കോഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യസ്ത ആശയങ്ങളുമായി സ്വയം തുറന്നുകാണിക്കുക മാത്രമാണ് അതാണ് ഞാൻ ചെയ്തത് പക്ഷേ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ AI അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ AI ML DL എന്നിവയിൽ പ്രത്യേക സെമസ്റ്റർ ദൈർഘ്യമുള്ള കോഴ്സുകൾ എടുക്കണം അതിനാൽ ഇതോടെ ഞങ്ങൾ അവസാനിക്കുന്നു